അതിനാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 ലെ ലെക്ചർ നമ്പർ 25ലേക്ക് സ്വാഗതം ഇന്ന് ഇoപ്രോപ്പർ ഇന്റഗ്രലുകളുടെ ക്ലാസ്സിൽ വരുന്ന ചില പ്രത്യേക ബീറ്റ ഗാമ ഫംഗ്ഷനുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ പ്രധാനമായും ഇoപ്രോപ്പർ ഇന്റഗ്രലുകളായ അത്തരം പ്രത്യേക ഫംഗ്ഷനുകളുടെ കൺവെർജെൻസിനെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്യും അതിനാൽ മുമ്പത്തെ പ്രഭാഷണത്തിൽ വളരെ ഉപയോഗപ്രദമായ താരതമ്യ പരിശോധന ഞങ്ങൾ കണ്ടു ഉദാഹരണത്തിന് ഒരു നെഗറ്റീവ് അല്ലാത്ത ഈ അസമത്വം തൃപ്തിപ്പെടുത്തുന്ന f g ഫംഗ്ഷൻ ഇവിടെയുണ്ട് അതിനാൽ f ന്റെ എല്ലാ മൂല്യങ്ങളും ടൈപ്പ് 1 ന്റെ ഇoപ്രോപ്പർ ഇന്റഗ്രലിന്റെ കാര്യത്തിൽ ഏത് പോയിന്റിലും യാണ് അതിനാൽ ഈ അസമത്വം ഞങ്ങൾക്ക് f നെഗറ്റീവ് അല്ലാത്ത മൂല്യങ്ങളിൽ എടുക്കുന്നു ഈ g ഇതിലും വലിയ മൂല്യങ്ങൾ എടുക്കുന്നു അങ്ങനെയാകുമ്പോൾ f g എന്നിവയുടെ ഈ അനുപാതം ഞങ്ങൾ കണക്കാക്കുന്നു ഈ അനുപാതത്തിന്റെ ലിമിറ്റിനെ അടിസ്ഥാനമാക്കി f നിഗമനം ചെയ്യുന്നത് g യുടെ ഇന്റഗ്രലിന്റെ കൺവെർജെൻസൊ മറ്റേതെങ്കിലും വഴിയോ ആണോ എന്ന് നിങ്ങൾ നിഗമനം ചെയ്യും അതിനാൽ ടൈപ്പ് 1 ഇന്റഗ്രലിന്റെയും ടൈപ്പ് 2 ഇന്റഗ്രലിന്റെയും രണ്ട് കേസുകളും ഇവിടെ ഞങ്ങൾ പരിഗണിക്കുന്നു അതിനാൽ ടൈപ്പ് 1 ന്റെ ഇന്റഗ്രലിനായി ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് കാരണം ഇന്റഗ്രാന്റ് ഇൻഫിനിറ്റിയിൽ ബൌൺണ്ടഡാണ് ടൈപ്പ് 2 ഇന്റഗ്രലിൽ നമുക്ക് ഇതിനും a യ്ക്കും b യ്ക്കും ഇടയിൽ അൺബൌൺണ്ടഡായ ഫംഗ്ഷനുണ്ട് അതിനാൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഇവിടെ പരിഗണിക്കുന്നു അതിനാൽ ടൈപ്പ് 1 ന്റെ ഇoപ്രോപ്പർ ഇന്റഗ്രലിന്റെ കാര്യത്തിൽ ലിമിറ്റ് ആയി എടുക്കും ടൈപ്പ് 2 ന്റെ ഇന്റഗ്രൽ ആണെങ്കിൽ ലിമിറ്റ് ആയി പരിഗണിക്കും അതിനാൽ ഈ ലിമിറ്റ് അടിസ്ഥാനമാക്കി ഈ k ≠ 0 യാണെങ്കിൽ രണ്ട് ഇന്റഗ്രലുകളും ഇന്റഗ്രൽ മറ്റൊന്ന് ഇവ രണ്ടും ഒരേ രീതിയിൽ പെരുമാറും K 0 എന്നിവ കൺവെർജ് ചെയ്താൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ ആ ഇന്റഗ്രൽ കൺവെർജ് ചെയ്താൽ മറ്റൊന്നുo കൺവെർജ് ചെയ്യും ഈ k ആണെങ്കിൽ മറ്റൊന്ന് ഇന്റഗ്രൽ ആണെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇത് ഡൈവേർജ് ചെയ്യുന്നു ഈ ഉം ഡൈവേർജ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നിഗമനം ചെയ്യാം അതിനാൽ ഈ വിഭവങ്ങളെ അടിസ്ഥാനമാക്കി ബീറ്റ ഗാമാ ഫംഗ്ഷനുകളായ രണ്ട് പ്രത്യേക ഫംഗ്ഷനുകളുടെ കൺവെർജെൻസിനെ ഞങ്ങൾ തെളിയിക്കും അതിനാൽ ആ ഫംഗ്ഷനുകൾ എന്താണെന്ന് ആദ്യം ഞാൻ നിർവചിക്കും അതിനാൽ മുമ്പത്തെ പ്രഭാഷണത്തിൽ നിന്ന് ഈ ടെസ്റ്റ് ഇന്റഗ്രലുകൾ വീണ്ടും ആവശ്യമാണ് അവിടെ ഞങ്ങൾ ഈ രണ്ട് തരം ഇന്റഗ്രലുകൾ കണ്ടു ടൈപ്പ് 2 ഇന്റഗ്രലുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചു അതിനാൽ ഇവിടെ ഈ ഇന്റഗ്രൽ p 1 നായി കൺവെർജ് ചെയ്യുകയും p≥1 ന് ഡൈവേർജ് ചെയ്യുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ടൈപ്പ് 1 ഇoപ്രോപ്പർ ഇന്റഗ്രലുകളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഇന്റഗ്രൽ p 1 ഉള്ളപ്പോൾ കൺവെർജ് ചെയ്യുന്നു p≤1 ന് ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ ഈ രണ്ട് ഇന്റഗ്രലുകളും ആ പ്രത്യേക ഫംഗ്ഷനുകളുടെ താരതമ്യ പരിശോധനയ്ക്കായി വീണ്ടും ഉപയോഗിക്കും അതിനാൽ ഈ ഫംഗ്ഷനുകളിലേക്ക് വരുന്ന ഞങ്ങൾക്ക് ബീറ്റ ഗാമാ ഫംഗ്ഷനുകൾ ഉണ്ട് ഈ ബീറ്റ ഫംഗ്ഷനെ നിർവചിക്കുന്നത് ഈ ഇന്റഗ്രൽ ആണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ച B m n ഇവിടെ അതിനാൽ m n എന്നിവ രണ്ടും കർശനമായി പോസിറ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമേ ഈ മൂല്യങ്ങൾ ഈ ഇന്റഗ്രൽ മൂല്യങ്ങൾക്കായി കൺവെർജ്ചെയ്യുന്നുള്ളു ഗാമാ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്ന മറ്റൊരു ഫംഗ്ഷനുമുണ്ട് അതിനാൽ ഈ ഇoപ്രോപ്പർ ഇന്റഗ്രലാണ് ഗാമ n നിർവചിച്ചിരിക്കുന്നത്

ആയിരിക്കുമ്പോൾ ഈ ഇന്റഗ്രലും കൺവെർജ് ചെയ്യുന്നതായി ഞങ്ങൾ നിരീക്ഷിക്കും അതിനാൽ വീണ്ടും ആദ്യ ഇന്റഗ്രലിലേക്ക് വരുന്നു

അതിനാൽ ഇത് ഇoപ്രോപ്പർ ഇന്റഗ്രൽ ടൈപ്പ് 2 ആണ് കാരണം അല്ലെങ്കിൽ ആയിരിക്കുമ്പോൾ ഈ ഇന്റഗ്രന്റ് അൺബൌൺണ്ടഡാകാം ഈ സാഹചര്യത്തിൽ പവർ നെഗറ്റീവ് ആണെങ്കിൽ ഇത് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആയിരിക്കുമ്പോഴോ അൺബൌൺണ്ടഡായി മാറും അതിനാൽ നെഗറ്റീവ് ആയി മാറും അതിനാൽ ഇത് ടൈപ്പ് 2 ഇoപ്രോപ്പർ ഇന്റഗ്രലായിരിക്കും രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് 0 മുതൽ വരെ ഉണ്ട് അതിനാൽ ഈ ഇൻഫിനിറ്റി ലിമിറ്റിൽ ദൃശ്യമാകുന്നു അതിനാൽ ഇത് ടൈപ്പ് 1 ഇoപ്രോപ്പർ ഇന്റഗ്രലാണ് അതുപോലെ തന്നെ ടൈപ്പ് 2 പ്രോപ്പർ ഇന്റഗ്രലാകാം കാരണം ഈ ഈ സാഹചര്യത്തിൽ ഈ n 1 നെഗറ്റീവ് ആണെങ്കിൽ x → 0 ആയിരിക്കുമ്പോൾ ഇന്റഗ്രൽ അൺബൌൺണ്ടഡായിത്തീരും മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ഉപയോഗിച്ച നൊട്ടേഷനുകൾ അനുസരിച്ച് ഇത് ഒരു മിശ്രിത തരം ഇന്റഗ്രൽ അല്ലെങ്കിൽ ടൈപ്പ് 3 ഇന്റഗ്രലുകൾ ആണ് അതിനാൽ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നിന്ന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്റഗ്രലിന്റെ കൺവെർജെൻസിനെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യും അതിനാൽ ഇവിടെ ബീറ്റ ഫംഗ്ഷന്റെ കൺവെർജെൻസും m n≥1 ആയിരിക്കുമ്പോൾ ആദ്യത്തെ കേസും പരിഗണിക്കും ഈ സാഹചര്യത്തിൽ m നും n നും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ x നും നും പവർ പോസിറ്റീവ് ആണ് കാരണം n എന്നത് 1 ന്നേക്കാൾ വലുതും തുല്യവുമാണ് ആ പവർ പോസിറ്റീവ് ആണ് അതിനാൽ രണ്ട് സന്ദർഭങ്ങളിലും m ഉം n ഉം കർശനമായി 1 നേക്കാൾ വലുതാകുമ്പോൾ ഇന്റഗ്രന്റ അൺബൌൺണ്ടഡ് ഫംഗ്ഷനല്ലെന്ന് ഞങ്ങൾ കാണുന്നു അതിനാൽ ഈ ഇന്റഗ്രൽ തീർച്ചയായും പ്രോപ്പർ ഇന്റഗ്രലാണ് ഇoപ്രോപ്പർ ഇന്റഗ്രലുകളുടെ കൺവെർജെൻസിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല അതിനാൽ ഇത് ഒരു പ്രത്യേക കേസാണ് ഈ ഇന്റഗ്രൽ പ്രോപ്പറാണ് അതിനാൽ ഇത് കൺവെർജന്റാണ് അതിനാൽ ഇവിടെ രസകരമായ കാര്യം m n 1 അതിനാൽ ഇവിടെ m 1 ഉം ഇവിടെ n 1 ഉം ആണ് അതിനാൽ ഈ പവർ നെഗറ്റീവ് ആയിത്തീരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 2 ന്റെ ഇoപ്രോപ്പർ ഇന്റഗ്രൽ ഉണ്ട് കാരണം ഇന്റഗ്രന്റ അൺബൌൺണ്ടഡായി മാറുന്നു അതിനാൽ ഇത് പരിഗണിക്കും അതിനാൽ ഇത് രണ്ടായി വിഭജിക്കും കാരണം x → 0 ആയിരിക്കുമ്പോഴും x → 1 ആയിരിക്കുമ്പോഴും ഈ രണ്ട് പദങ്ങളിലും ഞങ്ങൾക്ക് പ്രോബ്ലംമുണ്ട് അതിനാൽ ഈ ഇന്റഗ്രലിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കും നമുക്ക് ഇതിനെ എന്ന് വിളിക്കാം കാരണം ഈ രണ്ട് ഇന്റഗ്രലുകളുടെ കൺവെർജെൻസിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്യും ഈ പദം കാരണം ഈ ആദ്യ കേസിൽ ഈ ഇന്റഗ്രൽ ഇoപ്രോപ്പറാവുകയാണ് രണ്ടാമത്തെ കേസിൽ ഇത് x → 1 ആയിരിക്കുന്നതിനാൽ ഈ ഇന്റഗ്രൽ ഇoപ്രോപ്പറായി മാറുന്നു അതിനാൽ നമുക്ക് ഓരോന്നായി ചർച്ച ചെയ്യാം അതിനാൽ ആദ്യ കേസിൽ ഞങ്ങൾ ഈ എടുക്കും ഈ ഇoപ്രോപ്പർ ഇന്റഗ്രലിന്റെ ഇന്റഗ്രന്റ f നെ ആയി എടുക്കുന്നു ഇപ്പോൾ താരതമ്യത്തിനായി നാം മറ്റൊരു ഫംഗ്ഷൻ എടുക്കണം അതിനാൽ ഞങ്ങൾ ഇവിടെ g പരിഗണിക്കുന്നു കാരണം ഈ ഇന്റഗ്രന്റിൽ x → 0 ആകുമ്പോൾ പ്രോബ്ലം ഉണ്ടെന്ന് വ്യക്തമാണ് x → 0 അൺബൌൺണ്ടട്നെസ്സ് സൃഷ്ടിക്കുന്നില്ല അതിനാൽ ഇതാണ് ഫംഗ്ഷൻ ഇത് യഥാർത്ഥത്തിൽ ഈ ഇന്റഗ്രന്റിനെ അൺബൌൺണ്ടഡാക്കുന്നു അതിനാൽ ഈ ഫംഗ്ഷന്റെ സ്വഭാവം x → 0 ഈ ൽ നിന്ന് എടുക്കും അതുകൊണ്ടാണ് ഈ ഇവിടെ തിരഞ്ഞെടുത്തത് അതിനാൽ ഞങ്ങൾ g എടുത്തു ഇപ്പോൾ അനുപാതം എടുക്കും അങ്ങനെ ഇത് അൺബൌൺണ്ടഡാക്കുന്നത് റദ്ദാക്കുകയും ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫൈനെറ്റ് ലിമിറ്റ് ലഭിക്കുകയും ചെയ്യും അതിനാൽ ആ ലിമിറ്റ് f x ന് തുല്യമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ എന്നിവ എടുക്കുന്നു അതിനാൽ ഈ ലിമിറ്റ് ഇവിടെ എടുക്കുന്നു ഇത് ഈ ലിമിറ്റിന് തുല്യമാണ് കൂടാതെ ലിമിറ്റ് എടുക്കുമ്പോൾ ഇവിടെ ഇത് റദ്ദാക്കുകയും ലിമിറ്റ് x → 0 എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇത് 1 ആയി ലഭിക്കും അതിനാൽ ഇവിടെ ഈ ന്റെ അനുപാതം 1 ലഭിക്കുന്നു താരതമ്യ പരിശോധനയിൽ മുമ്പത്തെ സ്ലൈഡുകളിൽ ഞങ്ങൾ അവലോകനം ചെയ്തുപോലെ ഈ ഇoപ്രോപ്പർ ഇന്റഗ്രൽ സ്വഭാവം ഈ g ഫംഗ്ഷന് സമാനമായിരിക്കും അതിനാൽ g ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താണ് ഞങ്ങൾ ചർച്ച ചെയ്ത ടെസ്റ്റ് ഇന്റഗ്രൽ ആണ് ആയിരിക്കുമ്പോൾ ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ m 0 എന്നാണ് ഇതിനർത്ഥം എന്നതിന്റെ അർത്ഥം m 0 ആണെങ്കിൽ ടെസ്റ്റ് ഇന്റഗ്രൽ വീണ്ടും കൺവെർജ് ചെയ്യുന്നതായി ഞങ്ങൾ നിഗമനം ചെയ്യും അതിനാൽ എന്നതിന്റെ അർത്ഥം ആയിരിക്കുമ്പോൾ ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യപ്പെടുന്നു അതിനാൽ ഈ ടെസ്റ്റ് ഇന്റഗ്രലിന്റെ കൺവെർജെൻസും ഡൈവേർജെൻസ് സ്വഭാവവും ഞങ്ങൾക്കറിയാം ഈ ടെസ്റ്റ് ഇന്റഗ്രലിന്റെ പെരുമാറ്റം തന്നിരിക്കുന്ന ഇന്റഗ്രലിന് സമാനമാണ് കാരണം ഈ അനുപാതം സ്ഥിരമായിരിക്കും അതിനാൽ താരതമ്യ പരിശോധന പ്രകാരം m 0 ആയിരിക്കുമ്പോൾ നമ്മുടെ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യും m≤0 ആയിരിക്കുമ്പോൾ അത് ഡൈവേർജ് ചെയ്യും അതിനാൽ ഇന്റഗ്രൽ നെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നിഗമനം എന്താണ് അതിനാൽ നമുക്ക് ഈ ഉള്ളപ്പോൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കേസ് പരിഗണിക്കുന്നു അതിനാൽ ഇത് 0 m 1 ആണെങ്കിൽ ടെസ്റ്റ് ഇന്റഗ്രൽ കൺവെർജെൻസ് m≤0 ആയിരിക്കുമ്പോൾ ഈ ഇന്റഗ്രൽ ഡൈവേർജെൻസ് ഇപ്പോൾ രണ്ടാമത്തെ ഇന്റഗ്രലിലേക്ക് വരുന്നു കാരണം ഞങ്ങൾ യഥാർത്ഥ ഇന്റഗ്രലിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു അതിനാൽ ഇത് രണ്ടാമത്തെ ഇന്റഗ്രൽ ആയിരുന്നു ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഇന്റെഗ്രന്റ് f ഫംഗ്ഷനായി എടുക്കുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഓർക്കുക ഈ സ്വഭാവത്തെ x → 1 നിയന്ത്രിക്കുന്നു കാരണം ഈ n 1 നെഗറ്റീവ് ആണ് ഫംഗ്ഷന്റെ ഈ ഭാഗം ഇന്റഗ്രലിനെ അൺബൌൺണ്ടഡാക്കുന്നു അതിനാൽ ആയിരിക്കുമ്പോൾ ഇത് ആകുന്നു അതിനാൽ ഈ ഫംഗ്ഷനിലെ പദമാണ് ഇത് അതിനാൽ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ g വീണ്ടും തിരഞ്ഞെടുക്കും അതിനാൽ ഈ g ഉള്ളതിനാൽ കണക്കാക്കും അതിനാൽ ഇവിടെ ഈ ലിമിറ്റ് കൃത്യമായി 1ആണ് അതിനാൽ ന്യൂമറേറ്ററിലേക്ക് പോകും ഇതാണ് ഇവിടെ f അതിനാൽ വീണ്ടും ഈ പദം റദ്ദാക്കപ്പെടും അതിനാൽ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നു അതിനാൽ സമാനമായ ഫലം വീണ്ടും ലഭിക്കുന്നു അതിനാൽ ഈ ഇoപ്രോപ്പർ ടെസ്റ്റ് ഇന്റഗ്രലിന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് നിഗമനം ചെയ്യാം അതിനാൽ ഞങ്ങളുടെ ടെസ്റ്റ് ഇന്റഗ്രൽ ആയിരുന്നു ആകുമ്പോൾ അതായത് n 0 എന്നർത്ഥം ഇത് കൺവെർജ് ചെയ്യുന്നു ഇവിടെ എന്നതിന്റെ അർത്ഥം ആയി മാറുന്നു അതിനാൽ ഇന്റഗ്രലിന്റെ ഈ ഭാഗത്തിന് ഈ സ്വഭാവമുണ്ട് ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു ആയിരിക്കുമ്പോൾ ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു മറ്റേതിന് സമാനമായ ഫലങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു പക്ഷേ അതായിരുന്നു m ലെ കണ്ടിഷൻ അതിനാൽ ഇവ രണ്ടും കൂടിച്ചേർന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ബീറ്റ ഫംഗ്ഷൻ ആയിരുന്നു ഇത് രണ്ട് ഭാഗങ്ങളായി എടുത്തു ഒപ്പം കൺവെർജെൻസിനായി ഞങ്ങൾ ഓരോന്നും പ്രത്യേകം ചർച്ചചെയ്തു അതിനാൽ ഈ ഇന്റഗ്രൽ m n 0 എന്നതിനായി കൺവെർജ് ചെയ്യുന്നു അവയ്ക്ക് ഏതൊരു മൂല്യവും എടുക്കാo കാരണം ഞങ്ങൾ ഇതിനകം കൺവെർജെൻസ് ചർച്ചചെയ്തിട്ടുണ്ട് ആണെങ്കിൽ ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ ഈ ബീറ്റ ഫംഗ്ഷൻ എടുക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഇത് എന്ന് അനുമാനിക്കും കാരണം ഈ ഉം n ഉം 0 ന് തുല്യമാകുമ്പോൾ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു ഇപ്പോൾ ഗാമ ഫംഗ്ഷന്റെ കൺവെർജെൻസിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും അത് ആണ് ഇവിടെ n 0 ആയിരിക്കുമ്പോൾ ഇത് നിലവിലുണ്ടെന്ന് ഞങ്ങൾ നിഗമനം ചെയ്യും അതിനാൽ n≥1 എന്ന കേസ് ഞങ്ങൾ പരിഗണിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്റഗ്രന്റ ബൌൺണ്ടഡായിരിക്കുന്നു അതിനാൽ ഞങ്ങൾ വീണ്ടും രണ്ട് ഭാഗങ്ങളായി എടുക്കും ഈ ഇന്റഗ്രൽ ഒന്ന് തുടർന്ന് മറ്റൊന്ന്ആണ് അതിനാൽ നമ്മൾ 0 aലേക്ക് എടുക്കുമ്പോൾ ആദ്യത്തെ ഇന്റഗ്രൽ ഇത് അർത്ഥമാക്കുന്നു n എന്നത് 0 ന് തുല്യമായതിനേക്കാൾ വലുതാണെന്നർത്ഥം ഇതിനു ഒരു ഏകത്വമില്ല ഈ ഭാഗതിനു അൺബൌൺണ്ടട്നെസ്സ് ഇല്ല ഇവിടെ നല്ലതാണ് അതിനാൽ ഇതിനർത്ഥം ഈ ഇന്റഗ്രൽ ബൌൺണ്ടഡാണ് അതിനാൽ എന്ന രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ കൺവെർജെൻസ് ഞങ്ങൾ പരിശോധിക്കും കാരണം n 1 ആയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി പ്രോബ്ലം ഉണ്ട് അതിനാൽ ഞങ്ങൾ കേസ് n 1 പരിഗണിക്കുന്നു ഇപ്പോൾ ഈ ഇൻഫിനിറ്റി കാരണം ടൈപ്പ് 1 ഇoപ്രോപ്പർ ഇന്റഗ്രൽ ഞങ്ങൾക്ക് ഉണ്ട് അതിനാൽ ഇവിടെ ഇന്റഗ്രന്റ ഉണ്ട് ആകുമ്പോൾ ഈ ഫംഗ്ഷന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി g പരിഗണിക്കും അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ p 1 ഇത് എടുക്കുന്നതിനുള്ള കാരണം എന്താണ് അതിനാൽ എടുത്താൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നതെന്താണ് എടുത്തതായി കരുതുക അതിനാൽ ഈ x സ്ക്വയർ ഇവിടെ കൊണ്ട് ഗുണിക്കും അതിനാൽ നമുക്ക് ഉണ്ട് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ടോ എന്നതിന്റെ കാരണം ഈ സാഹചര്യത്തിൽ ഇത് n 1 p ആയിരിക്കും എന്നത് പ്രശ്നമല്ല n≥1 അതിനാൽ ഇവിടെ നമുക്ക് ചില x പവർ പോസിറ്റീവ് ഉണ്ട് അതിനാൽ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ പെരുമാറ്റം ഇപ്പോൾ നമുക്കറിയാം ഇത് അതിവേഗം വളരുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്ക് അവിടെയുള്ള പോസിറ്റീവ് പവർ എന്തായാലും അതിനാൽ ഇവിടെ ഈ ലിമിറ്റ് കാരണം ലേക്ക് വേഗത്തിൽ വളരും അതിനാൽ ഏത് പോസിറ്റീവ് പവറിനും ലിമിറ്റ് 0ലേക്ക് പോകുന്നു ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ലിമിറ്റ് ആയി മാറും അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ n≥1 ഉണ്ട് അതിനാൽ ഇത് 0 ന് തുല്യമാണ് ഇവിടെ നമുക്ക് p 1 ഉണ്ട് അതിനാൽ ഈ സാഹചര്യത്തിലും പവർ 1 നെക്കാൾ വലുതാണ് അതിനാൽ പവർ x ഏത് സാഹചര്യത്തിലും 1 നേക്കാൾ വലുതാണ് അതേ സാഹചര്യത്തിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ലിമിറ്റ് 0 ആയിരിക്കും ഇപ്പോൾ നമുക്ക് താരതമ്യ പരിശോധനയുണ്ട് ഈ x അപ്പോൾ ലിമിറ്റ് 0 ലേക്ക് പോകുമ്പോൾ അതിനർത്ഥം ഈ g ഈ f ഫംഗ്ഷനേക്കാൾ വേഗത്തിൽ വളരുന്നു ഇത് ഇവിടെ നമ്മുടെ g ആണ് അതിനാൽ ഇന്റഗ്രൽ g കൺവെർജ് ചെയ്താൽ f ഉം കൺവെർജ് ചെയ്യുമെന്ന് നമുക്ക് നിഗമനം ചെയ്യാം കാരണം ഈ അനുപാതത്തിൽ നിന്ന് നമുക്ക് 0 ലഭിക്കുന്നുണ്ടെങ്കിൽ താരതമ്യ പരിശോധനയിൽ ഇത് ഒരു കേസായിരുന്നു ഈ g അൺബൌൺണ്ടഡായി വേഗത്തിൽ വളരുകയോ അല്ലെങ്കിൽ x ലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ f ഫംഗ്ഷനേക്കാൾ വേഗത്തിൽ വളരുകയോ ചെയ്യുന്നു ഈ g യുടെ ഇന്റഗ്രൽ കൺവെർജ് ചെയ്താൽ സ്വാഭാവികമായും ഈ f ന്റെ ഇന്റഗ്രലും കൺവെർജ് ചെയ്യുo അതിനാൽ ഇവിടെ n≥1 നായി കൺവെർജ് ചെയ്യുന്നു g ക്ക് ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ g ക്ക് ഈ അനുപാതം 0 ആണ് ഈ g കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ ഇന്റഗ്രൽ ഉം കൺവെർജ് ചെയ്യുo അതായത് Γ കൺവെർജ് ചെയ്യുന്നു അതിനാൽ n≥1ന് ഇവിടെ Γ കൺവെർജ് ചെയ്യുന്നു കാരണംന് രണ്ട് ഇന്റഗ്രൽ ഉണ്ട് ഒന്ന് 0 മുതൽ a വരെ ഏതൊരു aക്കും കൺവെർജ് ചെയ്യുന്നു രണ്ടാമത്തേത് n≥1 ഉള്ളപ്പോഴെല്ലാം ഈ ഇന്റഗ്രലും കൺവെർജ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ പരീക്ഷിച്ചു അതിനാൽ n≥1 കൺവെർജെൻസിനായി ഒരു കേസ് ആവശ്യമാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസ് പരിഗണിക്കും അത് 0 n 1 ആയിരിക്കുമ്പോൾ അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ ഇന്റഗ്രൽ ഉണ്ട് അതിനാൽ വീണ്ടും 0 മുതൽ a വരെയും a മുതൽ വരെയും എടുത്തു അതിനാൽ മുമ്പത്തെ പഠനത്തെ അടിസ്ഥാനമാക്കി ഇത് വീണ്ടും അതേ കാരണതാൽ കൺവെർജ് ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ച അതേ ആർഗ്യുമെൻറ് ഞങ്ങൾ ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുകയും വീണ്ടും 0 n 1 വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 0 ലഭിക്കുകയും ചെയ്യും ഇന്റഗ്രൽ g കൺവെർജ് ചെയ്യുന്നതിനാൽ മറ്റൊന്നുo കൺവെർജ് ചെയ്യുന്നു അതിനാൽ ആ കേസിൽ രണ്ടാമത്തെ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു ഇപ്പോൾ എന്ന രണ്ടാമത്തെ സംഖ്യയ്ക്കായി പരിശോധിക്കും കാരണം 0 n 1 ആയിരിക്കുമ്പോൾ ഈ x പവർ നെഗറ്റീവ് ആണ് കാരണം x 0 ലേക്ക് അടുക്കുമ്പോൾ അൺബൌൺണ്ടഡ് ഫംഗ്ഷൻ ലഭിക്കുന്നു അതായത് ഇത് ടൈപ്പ് 2 ഇoപ്രോപ്പർ ഇന്റഗ്രലാണ് അതിനാൽ ഇന്റഗ്രന്റ ന്റെ കൺവെർജെൻസ് പരിഗണിക്കുക കൂടാതെ കാരണം ഈ ഫoഗ്ഷൻ അൺബൌൺണ്ടഡാകുന്നു അതിനാൽ ഞങ്ങൾ ഈ എടുക്കും x 0 ലേക്ക് അടുക്കുമ്പോൾ ലിമിറ്റ് x a ലേക്ക് അടുക്കുന്നു വാസ്തവത്തിൽ a അല്ല കാരണം 0ലേക്ക് എത്തുമ്പോഴാണ് ഇവിടെ പ്രോബ്ലം അതിനാൽ x 0 ലേക്ക് അടുക്കുമ്പോൾ ഇന്റഗ്രാൻഡ് അൺബൌൺണ്ടഡാകുന്നു 1 ആയി മാറും അത് 0 ന് തുല്യമല്ല അതിനാൽ ലിമിറ്റ് ഇവിടെ 1 ആണ് അത് 0 ന് തുല്യമല്ല അതിനാൽ ഇവിടെ ഈ ഫംഗ്ഷന്റെ സ്വഭാവം ഈ ഫംഗ്ഷന്റെ സ്വഭാവത്തിന് തുല്യമായിരിക്കും അതിനാൽ ഇവിടെ ഈ ഫoഗ്ഷൻ ആണെന്ന് നമുക്കറിയാം അതിനാൽ 0 n 1 ആകുമ്പോൾ ഈ g 0 മുതൽ 1 വരെയുള്ള ടെസ്റ്റ് ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗാമാ ഇന്റഗ്രലും കൺവെർജ് ചെയ്യുമെന്ന് നമുക്ക് നിഗമനം ചെയ്യാം കാരണം അവ ഈ ഇന്റഗ്രലായി പ്രവർത്തിക്കും ഈ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുമെങ്കിൽ മറ്റേതും കൺവെർജ് ചെയ്യുo ഇത് ഡൈവേർജ് ചെയ്യുന്നുവെങ്കിൽ ഈ ലിമിറ്റ് 1 ആയതിനാൽ മറ്റേതും ഡൈവേർജ് ചെയ്യുo അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് 0 n 1 ആയിരിക്കുമ്പോൾ ഈ ഇന്റഗ്രൽ വീണ്ടും കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ മൂന്നാമത്തെ കേസ് n≤0 ആയിരിക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇവയുടെ കൺവെർജെൻസ് പ്രത്യേകം ചർച്ച ചെയ്യും അതിനാൽ ഈ ഇന്റഗ്രൽ കാരണം ഞങ്ങൾ ഇത് ഇപ്പോൾ ഇതിനായി എടുക്കുന്നു ഞങ്ങൾ ഈ ഫംഗ്ഷൻ f എടുക്കുന്നു ഒപ്പം അതിനാൽ n നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ഇത് അൺബൌൺണ്ടഡാണ് വീണ്ടും ഈ ലിമിറ്റ് x 0 ലേക്ക് അടുക്കുന്നതായി നാം എടുക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ x വലതുവശത്ത് നിന്ന് 0 ലേക്ക് അടുക്കുന്നു ഈ സാഹചര്യത്തിലും 0 ന് തുല്യമല്ലാത്ത 1 ആയിരിക്കും അതിനാൽ നമുക്ക് വീണ്ടും സമാനമായ അവസ്ഥയുണ്ട് ഈ ഇന്റഗ്രൽ ആണെങ്കിൽ അവ സമാനമായി പ്രവർത്തിക്കും n≤0 ആയിരിക്കുമ്പോൾ ഇന്റഗ്രൽ ഡൈവേർജ് കാരണം n 0 നേക്കാൾ ചെറുതോ തുല്യമോ ആകുമ്പോൾ ഈ ഇന്റഗ്രൽ 1 പ്ലസ് ചിലത് ഉണ്ട് അതിനാൽ ഈ ഇന്റഗ്രൽ ഡൈവേർജ് കാരണം 1 n 1 ൽ കുറവാണെങ്കിൽ ഈ ഇന്റഗ്രൽ എന്നാൽ ഈ സാഹചര്യത്തിൽ ഇവിടെ പവർ n നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ഇത് 1 ന് വലുതോ തുല്യമോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ ഡൈവേർജ് അതിനാൽ ഇന്റഗ്രൽ ഉം ഡൈവേർജ് അതിനാൽ n≤0 ഉള്ളപ്പോൾ ഈ Γ ഡൈവേർജ് അതിനാൽ n നുള്ള എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിഗണിച്ചു 0 ന് തുല്യവും 0 നും 1 നും ഇടയിലും 1 ന് തുല്യമായതിലും കൂടുതലാണ് അതിനാൽ n≤0 ആയിരിക്കുമ്പോൾ ഇവയൊഴികെ ഇന്റഗ്രൽ എന്നാൽ ഈ ഇന്റഗ്രൽ ഞങ്ങൾ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു ഇപ്പോൾ അതാണ് നിഗമനം ഇവിടെ ഈ പവറിനെ അടിസ്ഥാനമാക്കി ഇന്റഗ്രൽ Γ ബീറ്റ രണ്ടും സമന്വയിപ്പിക്കുന്നു അതിനാൽ ന്റെ കാര്യത്തിൽ n പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഇത് മറ്റൊന്ന് m n പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഇത് അതിനാൽ ഈ ബീറ്റ ഫംഗ്ഷൻ ഉണ്ട് ഇത് ആണെങ്കിൽ ആണെങ്കിൽ ഡൈവേർജ് ഈ ഗാമ ഫംഗ്ഷൻ n 0 ആണെങ്കിൽ ആണെങ്കിൽ ഡൈവേർജ് അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ ഈ ബീറ്റ ഗാമാ ഫംഗ്ഷന്റെ ചില നല്ല സവിശേഷതകളും ഈ പ്രത്യേക ഫംഗ്ഷനുകളുടെ വിലയിരുത്തലും ഞങ്ങൾ കാണും അതിനാൽ ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ വളരെ നന്ദി